നമ്മൾ അനാലിസിസ് ഘട്ടം പൂർത്തിയാക്കി ഓരോ CO കൾക്കുമായി സാമ്പിൾ അസസ്മെന്റ് ഇനങ്ങൾ സൃഷ്ടിക്കേണ്ടതിന്റെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കി ടാക്സോണമി പട്ടികയിലെ കോഴ്സ് ഔട്കമുകൾ കണ്ടെത്തുക ആവശ്യമുള്ളിടത്തെല്ലാം ഓരോ CO യെയും കോംപീറ്റൻസികളിലേക്ക് വിശദീകരിക്കുക ഈ യൂണിറ്റിൽ നമ്മൾ ADDIE മോഡലിന്റെ ഡിസൈൻ പ്രക്രിയയിൽ ആരംഭിക്കാം നമ്മൾ ഉപപ്രക്രിയകൾ പരിശോധിക്കുന്നു എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിനായുള്ള കോഴ്സ് രൂപകൽപ്പനയുടെ കാര്യത്തിൽ ഡിസൈൻ ഘട്ടത്തിന്റെ ശ്രദ്ധ എന്താണ് ഈ യൂണിറ്റിന്റെ ഔട്കമുകൾ ഇവയാണ് വിലയിരുത്തലിന്റെ സ്വഭാവം മനസ്സിലാക്കുക ഡിസൈൻ ഘട്ടത്തിന്റെ ഉപപ്രക്രിയകൾ തിരിച്ചറിയുക ഡിസൈൻ ഘട്ടം പ്രാഥമികമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഇവയുമായാണ് പഠന ലക്ഷ്യങ്ങൾ ഒബിഇയുടെയും എൻബിഎയുടെയും പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ കോഴ്സ് ഔട്കമുകൾ കൈവരിക്കുന്നതിന് പഠിതാക്കൾക്ക് എന്ത് ചെയ്യാനാകുമെന്ന് തിരിച്ചറിയുക ഒപ്പം സ്വീകാര്യമായ പ്രകടന നിലവാരം എൻബിഎയുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ കോഴ്സ് ഔട്കമുകൾ കൈവരിക്കുന്നതിനുള്ള ലക്ഷ്യങ്ങൾ സജ്ജമാക്കുക തിരിച്ചറിയുകയും ചെയ്യുക അസ്സസ്സ്മെന്റ് യഥാർത്ഥത്തിൽ പ്രകടനത്തിന്റെ അളവുകോലാണ് ഇവാല്യുവേഷൻ വിലയിരുത്തലിന്റെ വ്യാഖ്യാനമാണ് മിക്കപ്പോഴും ഫാക്കൽറ്റി ഈ രണ്ട് പദങ്ങളും പരസ്പരം മാറി ഉപയോഗിക്കുന്നുവെന്നത് ശരിയാണ് പക്ഷേ അസ്സസ്സ്മെന്റ് യഥാർത്ഥത്തിൽ ഒരു അളവാണ് ഇവാല്യുവേഷൻ ഒരു വ്യാഖ്യാനമാണ് അസ്സസ്സ്മെന്റ് വിദ്യാർത്ഥികളുടെ പഠനത്തെ നയിക്കുന്നുവെന്ന് കാണേണ്ടത് വളരെ പ്രധാനമാണ് അസ്സസ്സ്മെന്റ് ശരിക്കും അത്ര പ്രധാനമല്ലെന്ന ധാരണ പലർക്കും ഉണ്ട് എന്നാൽ അസ്സസ്സ്മെന്റ് ഗുണനിലവാരം പഠന നിലവാരത്തെ നയിക്കുന്നുവെന്നത് അറിയപ്പെടുന്ന ഒരു വസ്തുതയാണ് അസ്സസ്സ്മെന്റ് വിദ്യാർത്ഥികൾക്ക് വളരെയധികം പ്രാധാന്യം ഉള്ള ഒന്നാണ് അതിനാൽ ഇത് പിരിമുറുക്കത്തിന്റെ ഉറവിടമാണ് എന്നാൽ വിദ്യാർത്ഥികളിൽ ഗുണനിലവാരമുള്ള പഠനം നയിക്കാനുള്ള ഏക മാർഗ്ഗം കൂടിയാണ് ഇത് നമ്മുടെ അസ്സസ്സ്മെന്റ് ഉപകരണങ്ങൾ നമ്മൾ പ്രധാനമെന്ന് കരുതുന്ന കാര്യങ്ങൾ വിദ്യാർത്ഥികളോട് പറയുന്നു അവരുടെ അസ്സസ്സ്മെന്റ്കളിലൂടെ പഠിക്കാൻ അധ്യാപകർ വിദ്യാർത്ഥികളെ നയിക്കുന്നു അതിനാൽ അസ്സസ്സ്മെന്റ് ഉയർന്ന നിലവാരമുള്ളതാണെന്നത് തികച്ചും അനിവാര്യമാണ് ഇത് വിദ്യാർത്ഥികളെ ആഴത്തിൽ പഠിക്കാൻ സഹായിക്കുകയും അത് ആഴത്തിൽ പഠിക്കാൻ വിദ്യാർത്ഥികളെ നയിക്കുകയും വേണം അസ്സസ്സ്മെന്റ് നിർണായക പങ്ക് വഹിക്കുന്നു ഒരു തരത്തിൽ അസ്സസ്സ്മെന്റ് ഒരു കോഴ്സിന്റെ ഘടകങ്ങളായ കോഴ്സിന്റെ ഉള്ളടക്കങ്ങൾ ഇൻസ്ട്രക്ഷനൽ രീതികൾ നൈപുണ്യ വികസനം എന്നിവയെ ബന്ധിപ്പിക്കുന്ന പശയാണ് അസ്സസ്സ്മെന്റ്ലൂടെ ഇവയെല്ലാം ഒരുമിച്ച് ചേർക്കുന്നു നല്ല നിലവാരമുള്ള പഠനം ഉറപ്പാക്കാൻ നല്ല നിലവാരമുള്ള അസ്സസ്സ്മെന്റ് ആവശ്യമാണ് ടെസ്റ്റ് ഇനമോ ഇനങ്ങളോ ചോദ്യങ്ങലുമായി എങ്ങനെ ബന്ധപെട്ടു കിടക്കുന്നു ചോദ്യങ്ങളും അധിക അനുബന്ധ വിവരങ്ങളും സാധാരണയായി ഒരു ടെസ്റ്റ് ഇനം അല്ലെങ്കിൽ ഇനം എന്ന് വിളിക്കുന്നു ചോദ്യങ്ങൾക്കൊപ്പം നമ്മൾക്ക് നൽകാൻ കഴിയുന്ന അധിക വിവരങ്ങളോ ടാഗുകളോ എന്തൊക്കെയാണ് ഒരു ശരാശരി വിദ്യാർത്ഥി ഇവ പരിഹരിക്കാൻ എടുക്കുന്ന സമയവും പ്രതീക്ഷിക്കുക സാങ്കേതികമായി വിളിക്കപ്പെടുന്ന മൊത്തം ചോദ്യപേപ്പർ അല്ലെങ്കിൽ അസ്സസ്സ്മെന്റ് ഉപകരണത്തിന് ചോദ്യങ്ങളോ ഇനങ്ങളോ ഉണ്ടെന്ന് ഉറപ്പാക്കാൻ ഇത് വളരെ അത്യാവശ്യമാണ് മൊത്തം സമയം ന്യായമായ ഒരു സമയം ആണെന്ന് പറയാൻ കഴിയുന്നത് ശരാശരി വിദ്യാർത്ഥിക്ക് ആവശ്യമായ ചോദ്യങ്ങൾക്ക് സുഖമായി ഉത്തരം നൽകാൻ കഴിയുമ്പോഴാണ് ഒരു ശരാശരി വിദ്യാർത്ഥി ചോദ്യങ്ങൾ പരിഹരിക്കാൻ എടുക്കുന്ന സമയത്തിന്റെ ഒരു എസ്റ്റിമേറ്റ് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് ഇത് തീർച്ചയായും ഇൻസ്ട്രക്ടറുടെ ഒരു എസ്റ്റിമേറ്റാണ് പക്ഷേ ഇത് അസ്സസ്സ്മെന്റ് ഉപകരണം ശരിയായി ആസൂത്രണം ചെയ്യാൻ സഹായിക്കുന്നു പേപ്പർ സെറ്ററിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ നമുക്കും വിലയിരുത്തുന്നവർക്കും ഒരു മാർഗ്ഗനിർദ്ദേശമായി ഒരു സാമ്പിൾ ഉത്തരം നൽകാനും കഴിയും ചില സൂചനകൾ നൽകാം ടാഗുകളും ഉൾപ്പെടുത്താം കോഴ്സ് ഔട്ട്കം കോഡ് യോഗ്യതാ കോഡ് കോഗ്നിറ്റീവ് ലെവൽ വിജ്ഞാന വിഭാഗം ബുദ്ധിമുട്ട് ലെവൽ തുടങ്ങിയവ പിന്നീടുള്ള ഒരു യൂണിറ്റിൽ നമ്മൾ കാണുന്നത് പോലെ ഒരു ഐറ്റം ബാങ്ക് സൃഷ്ടിക്കുമ്പോൾ ഈ ടാഗുകൾ ഉപയോഗിച്ച് ഒരു പ്രത്യേക സന്ദർഭത്തിന് പ്രസക്തമാകുന്ന നിലയിൽ അസ്സസ്സ്മെന്റ് ഇനങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് ഒരു അസ്സസ്സ്മെന്റ് ഉപകരണം സജ്ജമാക്കുന്നത് താരതമ്യേന ലളിതമാകും ഏത് തരത്തിലുള്ള അസ്സസ്സ്മെന്റ് ഇനങ്ങൾ സാധ്യമാണ് വൈവിധ്യമാർന്ന അസ്സസ്സ്മെന്റ് ഇനങ്ങൾ സാധ്യമാണ് ഉത്തരം നൽകേണ്ട ചോദ്യങ്ങൾ ക്വിസുകൾ ഒരു ക്വിസിൽ ഓർമിക്കുന്ന തലത്തിലുള്ള ഇനങ്ങൾ മാത്രം അടങ്ങിയിരിക്കണമെന്നില്ല എന്നതും പ്രധാനമാണ് മനസ്സിലാക്കാവുന്ന തലത്തിലുള്ള ഇനങ്ങൾ അടങ്ങിയ ഒരു ക്വിസ് ഉണ്ടായിരിക്കാം കുറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഉള്ള ലെവൽ പ്രയോഗിക്കുക ഉയർന്ന ലെവലുകൾ ബുദ്ധിമുട്ടായിരിക്കാം പക്ഷേ വ്യത്യസ്ത വൈജ്ഞാനിക തലങ്ങളിലുള്ള ഇനങ്ങൾ അടങ്ങിയ ഒരു ക്വിസ് നടത്തുന്നത് സാധ്യമാണ് നമുക്ക് അസൈൻമെന്റ് പ്രശ്നങ്ങൾ നൽകാം പലപ്പോഴും അസൈൻമെന്റ് പ്രശ്നങ്ങൾ ഉയർന്ന വൈജ്ഞാനിക തലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഇത് ഒരു ടേക്ക് ഹോം അസൈൻമെന്റ് ആയതിനാൽ അസൈൻമെന്റ് പൂർത്തിയാക്കാൻ വിദ്യാർത്ഥികൾക്ക് ന്യായമായ സമയം ലഭിക്കും ക്ലാസ് ടെസ്റ്റ് പോലുള്ള നിശ്ചിത സമയ മൂല്യനിർണ്ണയ ഉപകരണങ്ങളിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് നമുക്ക് അവ ഒരു അസൈൻമെന്റിൽ ഉൾപ്പെടുത്താം ഇപ്പോഴും ഇൻസ്ട്രക്ടർക്ക് സ്വാതന്ത്ര്യമുണ്ട് അതിനാൽ അവനോ അവളോ ഓർമ്മിക്കുന്ന തലത്തിൽ മനസിലാക്കുന്ന തലത്തിൽ നിശ്ചിത എണ്ണം ചോദ്യങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അസൈൻമെന്റിലും ഉൾപ്പെടുത്താം എന്നിരുന്നാലും ഒരു അസൈൻമെന്റിൽ ഉയർന്ന വൈജ്ഞാനിക തലങ്ങൾ ഉണ്ടായിരിക്കുക എന്നത് വളരെ സാധാരണമാണ് നടത്തേണ്ടുന്ന ലബോറട്ടറി പരീക്ഷണങ്ങൾ ചെയ്യേണ്ട പ്രോജക്ടുകൾ പ്രോജക്ടുകൾ ചെറുതും മിനി ഗ്രൂപ്പ് പ്രോജക്റ്റുകളും ആകാം അല്ലെങ്കിൽ അത് വലിയ പ്രാധാന്യമുള്ള ഒരു പ്രോജക്റ്റ് ആകാം ഫീൽഡ് വർക്ക് സാധ്യമാണ് എഴുതേണ്ട റിപ്പോർട്ടുകൾ അവതരണങ്ങൾ ഇവയെല്ലാം അസ്സസ്സ്മെന്റ് ഇനങ്ങളുടെ കീഴിലാണ് ഉചിതമായ അസ്സസ്സ്മെന്റ് ഇനങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഇൻസ്ട്രക്ടറുടെ വിശേഷാധികാരമാണ് ഒരു അസ്സസ്സ്മെന്റ് ഉപകരണം അടിസ്ഥാനപരമായി അസ്സസ്സ്മെന്റ് ഇനങ്ങളുടെ ഒരു ശേഖരമാണ് ഇൻസ്ട്രക്ടർ ചില അസ്സസ്സ്മെന്റ് ഇനങ്ങൾ തിരഞ്ഞെടുക്കുകയും അവയെ സംയോജിപ്പിച്ച് അസ്സസ്സ്മെന്റ് ഉപകരണം രൂപപ്പെടുത്തുകയും ചെയ്യുന്നു സാധാരണഗതിയിൽ ഒരു എഴുതേണ്ടുന്ന പ്രകടനമാണെങ്കിൽ അത് ഒരു ചോദ്യപേപ്പർ ആകുന്നു എന്നാൽ മറ്റ് അസ്സസ്സ്മെന്റ് ഇനങ്ങൾക്കൊപ്പം ഒരു അസ്സസ്സ്മെന്റ് ഉപകരണം ഉണ്ടായിരിക്കാനും കഴിയും എഴുതേണ്ടുന്ന പ്രതികരണങ്ങൾ ആവശ്യമുള്ള ക്വിസുകളും ചോദ്യങ്ങളും ഉപയോഗിച്ച് എനിക്ക് ഒരു ചോദ്യപേപ്പർ സൃഷ്ടിക്കാൻ കഴിയും അതിനാൽ വൈവിധ്യമാർന്ന അസ്സസ്സ്മെന്റ് ഉപകരണങ്ങൾ ഉണ്ടായിരിക്കാൻ സാധിക്കും ഉപയോഗിക്കേണ്ട മൂല്യനിർണ്ണയ ഉപകരണങ്ങൾ ഏതെന്ന് ഇൻസ്ട്രക്ടർ തീരുമാനിക്കേണ്ടതുണ്ട് അനുവദനീയമായ അസ്സസ്സ്മെന്റ് ഉപകരണങ്ങളുടെ സ്വഭാവം സംബന്ധിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ സർവകലാശാലയിൽ നിന്നോ ലഭ്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഉണ്ട് എന്നാൽ ആ മാർഗ്ഗനിർദ്ദേശങ്ങൾക്കുള്ളിൽ അസ്സസ്സ്മെന്റ് ഉപകരണങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് ഇൻസ്ട്രക്ടർക്ക് ഒരു നിശ്ചിത സ്വാതന്ത്ര്യമുണ്ടായിരിക്കും അതിനാൽ അവരുടെ ലക്ഷ്യവും കോഴ്സിന്റെ സന്ദർഭവും അസ്സസ്സ്മെന്റ് ഉപകരണത്തിന്റെ ഘടന നിർണ്ണയിക്കും അവയിൽ വ്യത്യസ്ത തരം ഇനങ്ങൾ അടങ്ങിയിരിക്കാം ക്വിസുകൾ ഇടക്കാല പരിശോധനകൾ അവസാന പരീക്ഷകൾ ഗ്രൂപ്പ് പ്രോജക്റ്റുകൾ എന്നിവ ഉദാഹരണങ്ങളാണ് മുൻപ് സൂചിപ്പിച്ചതുപോലെ പ്രത്യേകിച്ചും ഇടക്കാല പരീക്ഷ അവസാന പരീക്ഷകൾ പോലുള്ള ഇനങ്ങളുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി നൽകുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ ഉണ്ട് പക്ഷേ ഈ മാർഗ്ഗനിർദ്ദേശങ്ങൾക്കുള്ളിൽ ഇനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് ചില സ്വാതന്ത്ര്യം ഇൻസ്ട്രക്ടർക്ക് ലഭ്യമാണ് അവ അസ്സസ്സ്മെന്റ് ഉപകരണമാണ് അസ്സസ്സ്മെന്റ് തരങ്ങൾ വിശാലമായി പറഞ്ഞാൽ നമുക്ക് ഫോർമാറ്റീവ് അസസ്മെന്റ് അല്ലെങ്കിൽ പഠനത്തിനോ വിദ്യാഭ്യാസപരമായ വിലയിരുത്തലിനോ അസസ്മെന്റ് ഉണ്ട് ഇതിനെ ചില സന്ദർഭങ്ങളിൽ ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ് എന്നും വിളിക്കുന്നു പഠനത്തിന്റെ വിലയിരുത്തൽ നടക്കുന്ന സമ്മേറ്റിവ് അസ്സസ്സ്മെന്റ് ഒരു സമ്മേറ്റിവ് അസ്സസ്സ്മെന്റിന്റെ ഉദ്ദേശ്യം ഒടുവിൽ വിദ്യാർത്ഥിക്ക് മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ് നൽകുക എന്നതാണ് അതിനാൽ ഇത് സംഗ്രഹമാണ് അതിന് അതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ ഗ്രേഡോ മാർക്കോ ഉണ്ട് ഫോർമാറ്റീവ് അസസ്മെന്റിൽ പഠനം ഇൻസ്ട്രക്ടർ ഉദ്ദേശിച്ച രീതിയിൽ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇടയിൽ തിരുത്തേണ്ടതോ ഇൻസ്ട്രക്ഷനൽ തന്ത്രങ്ങൾ മാറ്റം വരുത്തേണ്ടതോ തക്ക രീതിയിലുള്ള പഠനത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ അല്ലെങ്കിൽ പഠനത്തിൽ എന്തെങ്കിലും പ്രശ്നമുള്ള മേഖലകൾ ഉണ്ടോ എന്ന് നിർണ്ണയിക്കുന്നതിലാണ് താൽപ്പര്യം പഠനം ഉദ്ദേശിച്ച രീതിയിൽ നടക്കുന്നുണ്ടോയെന്നറിയാൻ ഇൻസ്ട്രക്ടർ യഥാർത്ഥത്തിൽ അസ്സസ്സ്മെന്റിനെ ഒരു ഉപകരണമായി ഉപയോഗിക്കുന്നു അതുകൊണ്ടാണ് ഇത് പഠനത്തിനുള്ള വിലയിരുത്തൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായ വിലയിരുത്തൽ ആകുന്നത് ഫോർമാറ്റീവ് അസസ്മെന്റിന്റെ ഫലങ്ങൾ അനുസരിച്ച് ഇൻസ്ട്രക്ഷനൽ രീതികളിലോ തന്ത്രങ്ങളിലോ മാറ്റം വരുത്താൻ ഈ ഫലങ്ങൾ സാധാരണയായി ഉപയോഗിക്കുന്നു ഒരു പ്രത്യേക ഉപകരണം ഒരു ഫോർമാറ്റീവ് ഉപകരണമായും സമ്മേറ്റിവ് ഉപകരണമായും ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് ഒരു ക്ലാസ് ടെസ്റ്റ് ഒരു സമ്മേറ്റിവ് ഉപകരണമായി ഉപയോഗിക്കാം നിലവിലെ സന്ദർഭത്തിൽ സാധാരണ സംഭവിക്കുന്നത് അതാണ് പക്ഷേ ഇത് നിർണ്ണയിക്കാൻ വിദ്യാർത്ഥികൾ നൽകിയ പ്രതികരണങ്ങൾ നോക്കാൻ ശ്രമിക്കുന്നതിലൂടെ ഗുണനിലവാരമുള്ള പഠനത്തിന് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടായാൽ ഇത് ഫോർമാറ്റീവ് അസസ്മെന്റിന്റെ ഭാഗമായി ഉപയോഗിക്കാം ടെസ്റ്റ് ഇനങ്ങൾ എഴുതപ്പെടുന്ന രീതിയിലുമുണ്ട് പ്രകടന രീതിയിലുമുണ്ട് എഴുത്തുന്ന ടെസ്റ്റ് ഇനങ്ങൾ അവിടെ വിദ്യാർത്ഥിയുടെ പ്രകടനം യഥാർത്ഥത്തിൽ ഒരു രേഖാമൂലമുള്ള സമർപ്പിക്കൽ രൂപത്തിലാണ് അതേസമയം പ്രകടന പരിശോധന ഇനം ഒരു അവതരണം പോലെയാകാം അവിടെ ഒരു പ്രകടനമുണ്ട് അത് ഒരു പരിധിവരെ ആത്മനിഷ്ഠമായ രീതിയിൽ വിലയിരുത്തേണ്ടതുണ്ട് നമ്മൾ ഇപ്പോൾ അത് നോക്കുന്നു ആദ്യ ഇനം രേഖാമൂലമുള്ള പ്രതികരണ വീണ്ടും നിങ്ങൾക്ക് സാധ്യമായ വിശാലമായ ഇനങ്ങൾ തിരഞ്ഞെടുക്കാം പ്രാഥമികമായി അവയെ സെലക്ഷൻ തരം അല്ലെങ്കിൽ വിതരണ തരം എന്ന് വിളിക്കാം സെലക്ഷൻ തരത്തിൽ വിദ്യാർത്ഥിക്ക് ചില പ്രതികരണങ്ങൾ അവതരിപ്പിക്കുകയും ചോദ്യത്തിന് നൽകേണ്ട പ്രതികരണമായി വിദ്യാർത്ഥി ഇവയിൽ ഒന്നോ അതിലധികമോ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ അതിന് ഒരു ഉത്തമ ഉദാഹരണം ആണ് സപ്ലൈ ഇനത്തിൽ വിദ്യാർത്ഥിക്ക് അയാളുടെ അല്ലെങ്കിൽ അവളുടെ ധാരണ അല്ലെങ്കിൽ പ്രയോഗ പ്രക്രിയയുടെ ദീർഘകാല ഓർമ അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള സൂചനകൾ അടിസ്ഥാനമാക്കി ഉത്തരം നൽകേണ്ടതുണ്ട് അടിസ്ഥാനപരമായി സെലക്ഷൻ തരത്തിന് വീണ്ടും വിശാലമായ ശ്രേണി ഉണ്ട് പ്രാഥമികമായി സാധാരണ ഫോർമാറ്റ് മുൾട്ടിപിൾ ചോയ്സ് പോലെയാണ് പക്ഷേ നമുക്ക് ഒന്നിലധികം തിരഞ്ഞെടുക്കലുകൾ ഉണ്ടായിരിക്കാം അവിടെ ഒന്നിൽ കൂടുതൽ ശരിയായ ഉത്തരം ഉള്ളതോ തന്നിരിക്കുന്നത് ശരിയോ തെറ്റോ എന്ന് പറയേണ്ടതോ പൊരുത്തം സൂചിപ്പിക്കേണ്ടതോ ആയ ചോദ്യങ്ങൾ ഉണ്ടാകാം മാച്ചിങ് ബ്ലോക്കുകളിൽ വീണ്ടും നമുക്ക് ഒരു ചോയ്സ് ഉണ്ട് ഇരുവശത്തും ഒരേ എണ്ണം ഇനങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത ഇനങ്ങൾ ഉണ്ടായിരിക്കാം പുന ക്രമീകരണം പ്രത്യേകിച്ചും ഒരു ശ്രേണി നൽകിയിട്ടുണ്ട് ഒപ്പം ശ്രേണിയിൽ ശരിയായ ഘട്ടങ്ങൾ അടങ്ങിയിരിക്കുന്നു പക്ഷേ തെറ്റായ ക്രമത്തിലാണ് ശരിയായ രീതിയിൽ വിദ്യാർത്ഥി അവയെ പുനക്രമീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പുനക്രമീകരിക്കുന്നതിനുള്ള മാനദണ്ഡം അന്തർലീനമായ യുക്തി അല്ലെങ്കിൽ താൽക്കാലിക ക്രമം ആകാം ഇത് ഒരു സാധ്യമായ മാർഗമാണ് വീണ്ടും അത് ഉള്ളടക്കം കോഴ്സിന്റെ സ്വഭാവം അസ്സസ്സ്മെന്റ് ഉപകരണത്തിന്റെ സ്വഭാവം സന്ദർഭം എന്നിവയെ കൂടാതെ തന്നിരിക്കുന്ന സന്ദർഭത്തിന് മറ്റെന്തെങ്കിലും അസ്സസ്സ്മെന്റ് ഇനത്തേക്കാൾ അനുയോജ്യമായ ഒന്ന് ഉണ്ടെങ്കിൽ അതിനെയും ആശ്രയിച്ചിരിക്കുന്നു തന്നിരിക്കുന്ന സന്ദർഭത്തിന് ഏറ്റവും അനുയോജ്യമായ എല്ലാ ഇനങ്ങളും ഇൻസ്ട്രക്ടർ തീരുമാനിക്കേണ്ടതുണ്ട് ചെക്ക്ലിസ്റ്റുകൾ ഉണ്ടാകാം റേറ്റിംഗ് സ്കെയിലുകൾ ഉണ്ടാകാം വിവിധ ഇനം തീർച്ചയായും സാധ്യമാണ് തന്നിരിക്കുന്ന പദങ്ങളുടെ പട്ടികയിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു വാക്ക് ഉപയോഗിച്ച് ശൂന്യമായവ പൂരിപ്പിക്കുക എന്നത് ഒരു തിരഞ്ഞെടുക്കൽ തരമായി മാറും വിതരണ തരം ഇനങ്ങൾ അറിയപ്പെടുന്ന ഒന്നാണ് ഉദാഹരണത്തിന് ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ സെമസ്റ്റർ അവസാന ചോദ്യപേപ്പറിൽ നമ്മൾ ചോദിക്കുന്ന വിശദമായ ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങൾ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കേണ്ടുന്നത് രേഖാചിത്രം വരക്കേണ്ടുന്നത്അടയാളപ്പെടുത്തേണ്ടുന്നവ ഘടനാപരമായ പ്രതികരണങ്ങൾ വേണ്ടത് സംഖ്യാ ചോദ്യങ്ങൾ വിവ വോസ് എന്നിവ ഒക്കെ ആകാം വൈവ വോയ്സ് ഒരു പ്രകടനം പോലെയാണെന്ന് ചിലർക്ക് തോന്നുമെങ്കിലും വൈവയുടെ വിവരണാത്മക സ്വഭാവം ഇല്ലാതാക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഒരു ശരീരഭാഷയുണ്ട് ഉത്തരം പ്രകടിപ്പിക്കുന്ന ഒരു വഴിയുണ്ട് ആശയവിനിമയം അനൌപചാരികമായി നടക്കുന്ന ഒരു മാർഗമുണ്ട് ഈ ഘടകങ്ങൾ ഇല്ലാതാക്കാൻ വളരെ പ്രയാസമാണ് അതിനാൽ ചിലർ വൈവ് വോസിനെ ഒരു പ്രകടന തരമായി കണക്കാക്കുന്നു പക്ഷേ ഇത് ഒരു വിതരണ തരം ഇനമായി കണക്കാക്കാം പ്രകടന തരം ടെസ്റ്റ് ഇനങ്ങൾ സാധാരണയായി അവതരണങ്ങൾ പോലെയാണ് ഒരു വിദ്യാർത്ഥി ഡയസിലേക്ക് വന്ന് ഒരു സെമിനാർ അവതരിപ്പിക്കുകയോ പ്രോജക്റ്റിന്റെ സംഗ്രഹം അവതരിപ്പിക്കുകയോ ചെയ്യുന്നു ഇത് ഗ്രൂപ്പ് ചർച്ചകൾ പ്രോജക്ടുകൾ സിമുലേഷനുകൾ പരീക്ഷണങ്ങൾ നിർമ്മിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യേണ്ട പ്രോട്ടോടൈപ്പുകൾ ഏതെങ്കിലും തരത്തിലുള്ള അവതരണം നടത്തുന്ന ഫീൽഡ് പഠനങ്ങൾ എന്നിവ ആകാം നേരത്തെ സൂചിപ്പിച്ച വൈവ വോസ് പോലെ തന്നെ പരീക്ഷിക്കപ്പെടേണ്ട വസ്തുക്കൾ ഉപകരണങ്ങൾ അതേപോലെ അവതരിപ്പിക്കേണ്ട പരീക്ഷണ ഫലങ്ങളുടെ സംഗ്രഹം എന്നിവയെ പ്രകടന തരമായി കണക്കാക്കാം ഇതേ പോലെ നിരവധി ഇനങ്ങൾ സാധ്യമാണ് ഒരു പ്രകടന തരത്തിന്റെ പ്രാഥമിക സവിശേഷത പ്രതികരണം ശരിയാണെന്നോ ശരിയല്ലെന്നോ മാത്രമല്ല അതിനാൽ പരിഗണിക്കേണ്ട മറ്റ് വശങ്ങളുണ്ട് അവ അടിസ്ഥാനപരമായി വിവരണാത്മകമാണ് എന്നാൽ അടിസ്ഥാനപരമായി സബ്ജെക്റ്റീവ് അസ്സസ്സ്മെന്റിന് ചില വസ്തുനിഷ്ഠത നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട് മറ്റൊരു പ്രധാന കാര്യം അസ്സസ്സ്മെന്റിന്റെ ഗുണനിലവാരമാണ് അതായത് അതിന്റെ സാധുതയും വിശ്വാസ്യതയും അസ്സസ്സ്മെന്റ് അളക്കുന്ന അളവാണ് ഒരു സൈദ്ധാന്തിക വീക്ഷണകോണിൽ നിന്നുള്ള സാധുത പലവിധത്തിൽ പരിഗണിക്കാം എന്നാൽ നമ്മുടെ സന്ദർഭത്തിൽ നിന്ന് പ്രാഥമിക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വിദ്യാർത്ഥികളിൽ നിന്ന് പ്രതികരണങ്ങൾ നേടുന്നതിന് അസ്സസ്സ്മെന്റ് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു ഇത് ഒരു CO എത്രത്തോളം കൈവരിക്കുന്നുവെന്ന് നിർണ്ണയിക്കാൻ കഴിയുന്ന ഡാറ്റ നമുക്ക് നൽകും CO എന്നത് ഒരു വിദ്യാർത്ഥി നേടുകയും പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു കൂട്ടം കഴിവുകളാണ് വിദ്യാർത്ഥി ഈ കഴിവുകൾ എത്രത്തോളം നേടി എന്ന് നമ്മൾ അറിയാൻ താൽപ്പര്യപ്പെടുന്നു അവന് ഈ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയുമോ അതിനാൽ നമ്മൾ അസ്സസ്സ്മെന്റ് ഉപയോഗിക്കുന്നു അസ്സസ്സ്മെന്റ് സാധുതയുള്ളതല്ലെങ്കിൽ വിദ്യാർത്ഥികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രകടന ഡാറ്റ ആ സിഒയുടെ നേട്ടത്തിന്റെ തോത് നിർണ്ണയിക്കാൻ നമ്മളെ സഹായിക്കില്ല എങ്കിൽ സിഒ ചില പ്രത്യേക കഴിവുകളാണ് പ്രസ്താവിക്കുന്നത് പക്ഷേ അസ്സസ്സ്മെന്റ് ശരിക്കും ആ കഴിവുകളെ അഭിസംബോധന ചെയ്യുന്നില്ലെങ്കിൽ വിലയിരുത്തൽ ഉപകരണം ശരിക്കും സാധുതയുള്ളതല്ല വിദ്യാർത്ഥികൾ ആ കഴിവുകൾ എത്രത്തോളം നേടിയെടുത്തു എന്നു നമുക്ക് ലഭിക്കുന്ന ഡാറ്റ കൊണ്ട് നിർണ്ണയിക്കാൻ സാധിക്കില്ല ഓരോ അസ്സസ്സ്മെന്റ് ഉപകരണവും സാധുതയ്ക്കായി പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എൻബിഎ ചട്ടക്കൂടിന് കീഴിലുള്ള കോളേജുകൾക്ക് ഗുണനിലവാരത്തിനായുള്ള അസ്സസ്സ്മെന്റ് ഉപകരണങ്ങൾ പരിശോധിക്കുന്നതിന് ഒരു കമ്മിറ്റി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ ഇത് വളരെ പ്രധാനമാണ് ഗുണനിലവാരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് സാധുതയാണ് കമ്മിറ്റി യഥാർത്ഥത്തിൽ സാധുതയ്ക്കായി അസ്സസ്സ്മെന്റ് ഉപകരണം പരിശോധിക്കേണ്ടതുണ്ട് ഡാറ്റ ലഭിക്കുന്നതിന് അസാധുവായ ഒരു ഉപകരണം പ്രായോഗികമായി നമുക്ക് ഉപയോഗശൂന്യമാണ് സെമസ്റ്റർ അവസാന പരീക്ഷാ പേപ്പറുകൾ പോലും ഒരു നിശ്ചിത അളവിലുള്ള ഗുണനിലവാരം ഉറപ്പ് വരുത്തുന്ന പ്രവർത്തനത്തിലൂടെ കടന്നുപോകേണ്ടതുണ്ട് അത് ഒരു ടയർ 2 ഇൻസ്റ്റിറ്റ്യൂട്ട് അക്കാദമിക് നോൺ ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ പോലും അവിടെ സെമസ്റ്റർ അവസാന പരീക്ഷ സർവകലാശാല നടത്തുന്നു യൂണിവേഴ്സിറ്റിക്ക് തന്നെ ഒരു ബോർഡ് ഓഫ് എക്സാമിനേഴ്സ് ഉണ്ടായിരിക്കണം അത് സെമസ്റ്ററിലേക്കും പരീക്ഷയിലേക്കും ശരിക്കും നോക്കുന്നു ഗുണനിലവാരത്തിനായി പരിശോധിക്കുന്നു അതിനാൽ സാധുത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്നതിലും ആ പദ്ധതി കൃത്യമായി നടപ്പിലാക്കുന്നതിലും ഇൻസ്ട്രക്ടർ കാര്യമായ ശ്രദ്ധ ചെലുത്തുന്നില്ലെങ്കിൽ അസ്സസ്സ്മെന്റ് ഒബിഇ ചട്ടക്കൂടിന്റെ കാര്യത്തിൽ വലിയ പ്രയോജനമില്ലെന്ന് വരും മൂല്യനിർണ്ണയത്തിന്റെ രണ്ടാമത്തെ പ്രധാന വശം വിശ്വാസ്യത ആണ് പൊതുവെ പല ഫാക്കൽറ്റികളും ഇത് കാര്യമായി പരിഗണിക്കുന്നില്ല അതായത് മൂല്യനിർണ്ണയ സ്കോറുകളുടെ സ്ഥിരത ഒരു ബാച്ച് വിദ്യാർത്ഥികൾ ഒരു കോഴ്സിലൂടെ കടന്നുപോകുകയാണെങ്കിൽ അതിന്റെ വിലയിരുത്തളിലൂടെ നമുക്ക് ഒരു പ്രകടന ഡാറ്റ ലഭിക്കും മറ്റൊരു ബാച്ച് അതേ ഗതിയിലൂടെ കടന്നുപോകുകയാണെങ്കിൽ അവരുടെ പ്രകടന ഡാറ്റയുമുണ്ട് പ്രകടന ഡാറ്റ സമാനമാണെങ്കിൽ രണ്ട് ബാച്ചുകളിലും പഠന നിലവാരവും സമാനമാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ അത് നോക്കുന്നതിന് മറ്റൊരു വഴിയുണ്ട് ഒരു ബാച്ചിൽ നേട്ടങ്ങളുടെ തോത് ടാർഗെറ്റിനേക്കാൾ കുറവാണെന്ന് നമ്മൾ കണ്ടു അതിനർത്ഥം നേട്ടത്തിന്റെ തോത് മെച്ചപ്പെടുത്തുന്നതിനായി അടുത്ത തവണ നമ്മൾ ചില പ്രവർത്തന പദ്ധതികൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് പ്രകടന ഡാറ്റ ലഭിക്കുന്നു അത് നേട്ടത്തിന്റെ നിലവാരത്തിലെ പുരോഗതി കാണിക്കുന്നു മെച്ചപ്പെട്ട പ്രകടന ഡാറ്റ യഥാർത്ഥത്തിൽ പഠനം മെച്ചപ്പെട്ടതു മൂലമാണോ അല്ലെങ്കിൽ മോശം വിലയിരുത്തൽ മൂലമാണോയെന്ന് പറയാൻ കഴിയുമോ വ്യത്യസ്ത ബാച്ചുകളിൽ നിന്ന് ലഭിച്ച സ്കോറുകൾക്ക് വ്യത്യസ്ത സമയങ്ങളിൽ നിശ്ചിത സ്ഥിരതയുണ്ട് എന്ന അർത്ഥത്തിൽ നമ്മുടെ വിലയിരുത്തൽ എത്രത്തോളം വിശ്വസനീയമാണ് പഠനത്തെ പ്രതിഫലിപ്പിക്കുന്ന ഡാറ്റയാണ് അവ സൂചിപ്പിക്കുന്നത് അതിനർത്ഥം നിർവ്വഹിക്കുന്ന അസ്സസ്സ്മെന്റ് ഉപകരണങ്ങൾ വിദ്യാർത്ഥികളുടെ പ്രകടനം വിലയിരുത്തുമ്പോൾ അവയുടെ സ്വഭാവം ഏറെക്കുറെ സമാനമാണ് വിശ്വാസ്യതയും പ്രധാനമാണ് എന്നാൽ ചില പ്രോസസ് ഘട്ടങ്ങൾ പാലിച്ച് വിശ്വാസ്യത ഉറപ്പാക്കാനാകും വിദ്യാർത്ഥികളുടെ ഗുണനിലവാര പഠനം ഉറപ്പാക്കുന്നതിന് പ്രകടന ഡാറ്റ നമുക്ക് എത്രത്തോളം ഉപയോഗപ്രദമാണെന്ന് മൂല്യനിർണ്ണയത്തിന്റെ ഗുണനിലവാരം അടിസ്ഥാനപരമായി നിർണ്ണയിക്കും സമ്മേറ്റിവ് അസ്സസ്സ്മെന്റിന്റെ ഗുണനിലവാരം ഈ കോൺസെപ്റ് മാപ്പിൽ കാണിച്ചിരിക്കുന്നു സമ്മേറ്റിവ് അസ്സസ്സ്മെന്റിന്റെ സവിശേഷത സാധുതയും വിശ്വാസ്യതയും ആണ് അസ്സസ്സ്മെന്റ് ഉപകരണങ്ങളുടെ നിർദ്ദിഷ്ട ഉപയോഗത്തിനായി അസ്സസ്സ്മെന്റ് സ്കോറുകളുടെ വ്യാഖ്യാനത്തെ തെളിവുകളും സിദ്ധാന്തവും പിന്തുണയ്ക്കുന്ന അളവാണ് സാധുത പ്രധാന പദം നിർദ്ദിഷ്ട ഉപയോഗമാണ് CO നേട്ടത്തിന്റെ അളവ് നിർണ്ണയിക്കാൻ നമ്മൾ ഈ ഡാറ്റ ഉപയോഗിക്കുകയാണെങ്കിൽ CO കൈവരിക്കൽ നില നിർണ്ണയിക്കുന്നതിന് ശരിക്കും ഈ ഡാറ്റ സാധുവായിരിക്കണം സമ്മേറ്റിവ് അസ്സസ്സ്മെന്റിന്റെ അല്ലെങ്കിൽ ഒരു പ്രത്യേക അസ്സസ്സ്മെന്റ് ഉപകരണത്തിന്റെ സാധുത അതാണ് വ്യത്യസ്ത ബാച്ചുകളിലുള്ള സമാന അസ്സസ്സ്മെന്റ് ഉപകരണങ്ങളുടെ നിർവ്വഹണത്തിൽ ഉടനീളമുള്ള സ്കോറുകളുടെ സ്ഥിരതയാണ് വിശ്വാസ്യത സാധുതയും വിശ്വാസ്യതയും രണ്ടും നമുക്ക് വളരെ പ്രധാനമാണ് ചില പ്രക്രിയ ഘട്ടങ്ങൾ പാലിക്കുന്നതിലൂടെ അവ രണ്ടും നേടാനാകും ഉൾപ്പെടുന്ന പ്രക്രിയ ഘട്ടങ്ങൾ ഇവയാണ് ആദ്യം നന്നായി നിർവചിക്കപ്പെട്ട കോഴ്സ് ഔട്കമുകൾ അത് ആവശ്യാനുസരണം കഴിവുകളിലേക്ക് വികസിപ്പിക്കാനും ഈ കോഴ്സ് ഔട്കമുകൾ സിലബസിനൊപ്പം വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്യണം ശരിയായ വിജ്ഞാന തലങ്ങളിൽ വിലയിരുത്തൽ സിഒയെ ശരിയായി ഉൾക്കൊള്ളുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന് അത്യാവശ്യമായി നന്നായി നിർവചിക്കപ്പെട്ട ഒരു അസ്സസ്സ്മെന്റ് പാറ്റേൺ നമ്മൾ അത് വീണ്ടും ചർച്ച ചെയ്യും ആവശ്യമാണ് അസ്സസ്സ്മെന്റ് പാറ്റേൺ അനുസരിച്ച് ഒരു ഇനം ബാങ്ക് തയ്യാറാക്കുക ഇത് സാധുതയുള്ളതും വിശ്വസനീയവുമായ ഒരു അസ്സസ്സ്മെന്റ് ഉപകരണം സൃഷ്ടിക്കുന്നത് താരതമ്യേന എളുപ്പമാക്കുന്നു അതായത് തിരഞ്ഞെടുത്ത ബുദ്ധിമുട്ട് നിലയ്ക്കായി നിർവചിക്കപ്പെട്ട വിലയിരുത്തൽ ഉപകരണ പാറ്റേൺ ബുദ്ധിമുട്ട് ലെവൽ നമ്മൾ വീണ്ടും ചർച്ചചെയ്യും സങ്കീർണ്ണത ലെവലിൽ നിന്ന് വ്യത്യസ്തമാണ് അതായത് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് തലത്തിൽ ഒരു അസ്സസ്സ്മെന്റ് ഇനവും അപ്ലൈ തലത്തിൽ മറ്റൊന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അപ്ലൈ ഉയർന്ന സങ്കീർണ്ണ തലത്തിലാണ് പക്ഷേ അത് ഉയർന്ന ബുദ്ധിമുട്ടുള്ള തലത്തിലാണെന്ന് പറയുന്നില്ല തന്നിരിക്കുന്ന സങ്കീർണ്ണ തലത്തിൽ വ്യത്യസ്ത പ്രയാസ നിലകളുടെ അസ്സസ്സ്മെന്റ് ഇനങ്ങൾ നമുക്ക് ലഭിക്കും പ്രയോഗത്തിന്റെ അതേ തലത്തിൽ തന്നെ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ളതും കുറഞ്ഞ ബുദ്ധിമുട്ടുള്ളതും മിതമായ ബുദ്ധിമുട്ടുള്ളതുമായ ഒരു ഇനം ഉണ്ടായിരിക്കാം ഇതുപോലുള്ള വ്യത്യസ്ത ബുദ്ധിമുട്ടുള്ള നിലകൾ സാധ്യമാണ് ഒരു അസ്സസ്സ്മെന്റ് ഉപകരണത്തിൽ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന അസ്സസ്സ്മെന്റ് ഇനങ്ങളുടെ ബുദ്ധിമുട്ട് ലെവലുകൾ ഇൻസ്ട്രക്ടർ തീരുമാനിക്കണം ഈ പ്രക്രിയ ഘട്ടങ്ങൾ ഉറപ്പുവരുത്തുന്നതിലൂടെ സമ്മേറ്റിവ് അസ്സസ്സ്മെന്റിന്റെ സാധുതയും വിശ്വാസ്യതയും നമുക്ക് ഉറപ്പാക്കാൻ കഴിയും മൂല്യനിർണ്ണയത്തിലെ വ്യവസ്ഥാപിതവും ക്രമരഹിതവുമായ പിശകുകൾ ഒഴിവാക്കിക്കൊണ്ട് വിശ്വാസ്യത ഉറപ്പാക്കുന്നു മൂല്യനിർണ്ണയം സാധ്യമായ പരിധിവരെ ഓട്ടോമേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നന്നായി സ്ഥാപിതമായ പരിഹാര പാറ്റേണുകൾക്കെതിരെ ഒരു ഫാക്കൽറ്റി വിലയിരുത്തുമ്പോഴോ ഇത് വീണ്ടും സുഗമമാക്കുന്നു ഗുണനിലവാര വിലയിരുത്തൽ ഉറപ്പാക്കുന്നതിൽ സാധുതയും വിശ്വാസ്യതയും വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു ഇതിന് മുൻകൂട്ടി ആസൂത്രണം ചെയ്യേണ്ടത് ആവശ്യമാണ് ഏത് തരത്തിലുള്ള ആസൂത്രണം ആവശ്യമാണെന്ന് നമ്മൾ നോക്കും പക്ഷേ സമ്മേറ്റിവ് അസ്സസ്സ്മെന്റിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാൻ അത് അത്യന്താപേക്ഷിതമാണ് വിശ്വാസ്യത ശരിക്കും പ്രസക്തമായ ഒരു പ്രശ്നമാണോ എന്ന് ചിലപ്പോൾ ആളുകൾ ചിന്തിക്കാറുണ്ട് കാരണം ഒരു അധ്യാപകൻ ഒരേ കോളേജിൽ ഒരേ കോഴ്സ് രണ്ടാം തവണ പഠിപ്പിക്കാനിടയില്ല ഉയർന്ന നിലവാരമുള്ള സ്ഥാപനങ്ങളൊഴികെ മിക്ക എഞ്ചിനീയറിംഗ് കോളേജുകളിലും ഫാക്കൽറ്റികളുടെ ഗണ്യമായ കുറവുണ്ട് ബാഹ്യ പേപ്പർ സെറ്റർ സാധുതയുടെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചേക്കില്ല അഫിലിയേറ്റഡ് യൂണിവേഴ്സിറ്റി സിസ്റ്റത്തിൽ ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളും പുതിയ അദ്ധ്യാപകർ ബാഹ്യ പേപ്പർ സെറ്ററുകൾ ഈ ഘട്ടങ്ങളെല്ലാം പിന്തുടരുകയാണെങ്കിൽ അത് നമുക്ക് ഒരു പ്രക്രിയ ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ് എല്ലാവരും ആ പ്രക്രിയ ഘട്ടങ്ങൾ പാലിക്കണം അത് സംഭവിക്കുകയാണെങ്കിൽ സാധുത പ്രശ്നവും വിശ്വാസ്യതയുടെ ആവശ്യകതകളും സ്വപ്രേരിതമായി നിറവേറ്റപ്പെടും ഇതിനർത്ഥം നമുക്ക് ഒരു പ്രക്രിയ സജ്ജീകരിക്കാൻ കഴിയുമെങ്കിൽ അത് ശരിയായി നടപ്പിലാക്കുകയും പ്രസക്തമായ എല്ലാ ആളുകളെയും പുതിയ അധ്യാപകർ ഫാക്കൽറ്റി ബാഹ്യ പേപ്പർ കേന്ദ്രങ്ങൾ ഇവരെല്ലാം പ്രക്രിയ ഘട്ടങ്ങൾ ശരിയായി പിന്തുടരുകയും ചെയ്യുന്നുവെങ്കിൽ നമുക്ക് സാധുതയും വിശ്വാസ്യതയും ലഭിക്കും അതിനാൽ പ്രക്രിയ ശരിയായി നടപ്പാക്കേണ്ടത് പ്രധാനമാണ് ഇത് ഫാക്കൽറ്റിയുടെ സ്വാതന്ത്ര്യത്തിന്മേൽ ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതായി തോന്നാം പക്ഷേ അത് ശരിക്കും അങ്ങനെയല്ല അടിസ്ഥാനപരമായി ഫാക്കൽറ്റിക്ക് എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട് എന്നാൽ ഫാക്കൽറ്റി ചെയ്യുന്ന കാര്യങ്ങൾ ഗുണനിലവാര വിലയിരുത്തലിന് കാരണമാകുമെന്ന് പ്രക്രിയ ഘട്ടങ്ങൾ ഉറപ്പാക്കുന്നു ഇത് ഒരു തരം ഫാക്കൽറ്റിയുടെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള ഒരു നിയന്ത്രണമായി കാണരുത് പക്ഷേ സമ്മേറ്റിവ് അസ്സസ്സ്മെന്റിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു പ്രാഥമിക പ്രക്രിയയായി ഇതിനെ കാണണം ആ വീക്ഷണകോണിൽ നിന്ന് നോക്കിയാൽ ആ പ്രക്രിയ സ്വീകരിക്കുന്നതിൽ ഫാക്കൽറ്റിക്ക് ഒരു പ്രശ്നവുമില്ല ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയോ യൂണിവേഴ്സിറ്റിയുടെയോ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസൃതമായി പ്രക്രിയയെ മികച്ചതാക്കാൻ കഴിയും പക്ഷേ നമുക്ക് ഒരു പ്രക്രിയ ഉണ്ടായിരിക്കണം ഇവാല്യുവേഷൻ എന്നത് സ്കോറിംഗ് ആണ് സാധാരണഗതിയിൽ 1 2 5 10 അല്ലെങ്കിൽ അതിൽ കൂടുതൽ മാർക്ക് ഉണ്ട് എന്നാൽ നിരവധി സെമസ്റ്റർ അവസാന ചോദ്യപേപ്പറുകൾക്ക് വ്യത്യസ്ത തരം സ്കെയിലുകളുണ്ട് 12 മാർക്ക് 8 മാർക്ക് പോലും ഇവയെല്ലാം സാധ്യമാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോ സർവ്വകലാശാലയിലോ ഒരുതരം സ്റ്റാൻഡേർഡൈസേഷൻ ഉള്ളതിനാൽ ഒരു നല്ല ഐറ്റം ബാങ്ക് സൃഷ്ടിക്കുന്നതിന് ചില സ്വാതന്ത്ര്യമുണ്ടെന്ന് നമ്മൾ പിന്നീട് കാണും പക്ഷേ ഇത് വീണ്ടും ഒരു നയപരമായ കാര്യമാണ് എന്നാൽ ഇത് ശ്രദ്ധിക്കാൻ കഴിയുമെങ്കിൽ കുറഞ്ഞ അളവിലുള്ള പരിശ്രമത്തിലൂടെ നമുക്ക് ഗുണനിലവാര വിലയിരുത്തൽ സൃഷ്ടിക്കാൻ കഴിയും പ്രകടനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഇനങ്ങൾ വിലയിരുത്താൻ ശ്രമിക്കുമ്പോൾ നമുക്ക് റുബ്രിക്സ് ആവശ്യമാണ് എന്താണ് റുബ്രിക് ഒരു വിദ്യാർത്ഥി അവതരണം നടത്തുന്നത് പോലെ പ്രകടനത്തിന്റെ സബ്ജെക്ടിവ് വിലയിരുത്തലിനുള്ള ഒരു സ്കോറിംഗ് ഉപകരണമാണിത് അവതരണത്തിന്റെ ഗുണനിലവാരം അളക്കുന്നത് യഥാർത്ഥ ഉള്ളടക്കത്തിലൂടെ മാത്രമല്ല അവതരണത്തെ മികച്ചതാക്കുന്ന മറ്റ് നിരവധി ഘടകങ്ങളുമുണ്ട് അവതരണത്തെ മികച്ചതാക്കുന്ന ആട്രിബ്യൂട്ടുകൾ എന്തൊക്കെയാണ് എന്നിട്ട് അവ എങ്ങനെ അളക്കും അവ എങ്ങനെ വിലയിരുത്തും അവയെല്ലാം റുബ്രിക്സിന്റെ വിശാലമായ കുടക്കീഴിലാണ് അടിസ്ഥാനപരമായി ഇത് സബ്ജെക്റ്റീവാണ് റുബ്രിക്സിൽ സബ്ജക്റ്റിവിറ്റി പൂർണ്ണമായും ഒഴിവാക്കപ്പെടുന്നില്ല പക്ഷേ ഇത് ഒരു വസ്തുനിഷ്ഠമായ ചട്ടക്കൂട് നൽകുന്നു അത് സുതാര്യമാക്കുകയും ഇത് ഒരുതരം ഘടന സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഇത് വിദ്യാർത്ഥിക്കും സഹായകരമാണ് റുബ്രിക്സ് വിദ്യാർത്ഥിയുമായി ആശയവിനിമയം നടത്തുമ്പോൾ അവൻ അല്ലെങ്കിൽ അവൾ വിലയിരുത്തപ്പെടുന്ന ആട്രിബ്യൂട്ടുകൾ എന്താണെന്ന് വിദ്യാർത്ഥിക്ക് അറിയാം മൂല്യനിർണ്ണയ പ്രക്രിയ കൂടുതൽ വ്യക്തമായി മനസിലാക്കാനും അതിനനുസരിച്ച് തയ്യാറാക്കാനും അത് വിദ്യാർത്ഥിയെ സഹായിക്കും പ്രകടന ടെസ്റ്റ് ഇനങ്ങളിൽ ഒരു വിദ്യാർത്ഥിയുടെ പ്രതികരണം വിലയിരുത്താൻ ഉപയോഗിക്കുന്ന കഴിവുകളുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്ന മാനദണ്ഡങ്ങളുടെ ഒരു കൂട്ടമാണ് റുബ്രിക്സ് സാധാരണയായി ഒരു സെമിനാർ അവതരണം അല്ലെങ്കിൽ പ്രോജക്റ്റ് വർക്ക് അവതരണം പോലെ നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സ്റ്റാൻഡേർഡ് മൂല്യനിർണ്ണയം നടത്താൻ റുബ്രിക്സ് അനുവദിക്കുന്നു ഗ്രേഡിംഗ് ലളിതവും സുതാര്യവുമാക്കുന്നു ഇവ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ആശയവിനിമയം നടത്തുമ്പോൾ അതായത് വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്തുമ്പോൾ അവർ വിലയിരുത്തപ്പെടുന്നതിന്റെ അടിസ്ഥാനമെന്താണെന്ന് വിദ്യാർത്ഥികൾ അറിയുന്നു അതിനനുസരിച്ച് അവർക്ക് തയ്യാറാക്കാനും കഴിയും മുഴുവൻ സിസ്റ്റവും കൂടുതൽ സുതാര്യമാവുകയാണെങ്കിൽ അടിസ്ഥാനപരമായി ഒരു സബ്ജെക്റ്റീവ് വിലയിരുത്തൽ ഇപ്പോൾ കൂടുതൽ സുതാര്യമായിത്തീർന്നിരിക്കുന്നു ഇപ്പോഴും അത് സബ്ജെക്റ്റീവാണ് പക്ഷേ കൂടുതൽ സുതാര്യമായ ചട്ടക്കൂട് അടിസ്ഥാനമാക്കിയുള്ള വിലയിരുത്തൽ ആണെന് മാത്രം അതാണ് റുബ്രിക്സിന്റെ പ്രയോജനം ഒരു വെബ്സൈറ്റ് ഉണ്ട് rubistar 4teachers org അതിൽ വിവിധതരം റുബ്രിക്സ് അടങ്ങിയിരിക്കുന്നു വിവിധ ഇനങ്ങൾക്ക് വിവിധ കോഴ്സുകൾക്കായി അവ മാർഗ്ഗനിർദ്ദേശങ്ങളായി ഉപയോഗിക്കാം കാർനെഗീ മെലോൺ സർവകലാശാലയുടെ പഠന അദ്ധ്യാപന കേന്ദ്രം പോലെ നിരവധി സർവകലാശാലകളിലെ മറ്റ് നിരവധി വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഈ റുബ്രിക്സ് എങ്ങനെ നിർമ്മിക്കാമെന്നതിനെക്കുറിച്ച് ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നു മറ്റ് പല യൂണിവേഴ്സിറ്റികളും മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് അത് അടിസ്ഥാനമാക്കി റുബ്രിക്സ് നിർമ്മിക്കാൻ കഴിയും പക്ഷേ റുബ്രിക്സ് കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് അവ നിർമ്മിച്ചവയാണ് അതിനർത്ഥം റുബ്രിക്സ് നിലവിലുണ്ട് രണ്ടാമത്തേത് റുബ്രിക്സ് വിദ്യാർത്ഥികളുമായി മുൻകൂട്ടി പങ്കിടുന്നു റബ്റിക്സ് ഫലപ്രദമാക്കുന്നതിന് ഇത് ഒരു പ്രധാന ഘടകമാണ് ഒരു ഉദാഹരണമായി പ്രസന്റേഷൻ നമ്മൾ എങ്ങനെ വിലയിരുത്തുന്നുവെന്ന് നോക്കാം അതിനുള്ള റുബ്രിക്സിൽ പ്രാഥമികമായി ഉയർന്ന തലത്തിൽ 3 വിഭാഗങ്ങൾ അടങ്ങിയിരിക്കാം സാധാരണ കോഴ്സിനെ അടിസ്ഥാനമാക്കിയുള്ള ഉള്ളടക്കം എന്നാൽ മൂല്യനിർണ്ണയം നടക്കുന്ന മറ്റ് പാരാമീറ്ററുകൾ ഉണ്ട് അവ വോക്കൽ വൈദഗ്ധ്യവും നോൺ വെർബൽ കഴിവുകളും ആകാം നോൺ വെർബൽ കഴിവുകളിൽ നമുക്ക് കണ്ണ് സമ്പർക്കം മുഖഭാവം ഭാവം നിങ്ങൾ പട്ടികപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന മറ്റ് നിരവധി ആട്രിബ്യൂട്ടുകൾ ഉണ്ടാകാം വോക്കൽ സ്കിൽസിൽ നിങ്ങൾക്ക് ഉത്സാഹവും ശബ്ദമുള്ള താൽക്കാലിക വിരാമങ്ങളും ഉഹ് ഉം ആഹ് ഉണ്ടായിരിക്കാം അവതരണ വേളയിൽ നമ്മൾ ചെയ്യുന്ന താൽക്കാലിക വിരാമങ്ങൾ അവ എത്ര തവണ ആവർത്തിക്കുന്നു അവ ഒഴുക്കിന്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നുണ്ടോ ആശയവിനിമയത്തിന്റെ എളുപ്പത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടോ ഒരാൾ ഉപയോഗിക്കുന്ന ഫില്ലർ പദങ്ങൾ അല്ലെങ്കിൽ വാക്യഘടനയുടെ പൂർണ്ണതക്ക് വിദ്യാർത്ഥി ഉപയോഗിക്കുന്ന വാക്കുകൾ എന്നിവ പോലുള്ള പാരാമീറ്ററുകൾ ഒരാൾക്ക് ഉണ്ടായിരിക്കാം ഈ ആട്രിബ്യൂട്ടുകൾ ഫാക്കൽറ്റി മുന്നേ തന്നെ പട്ടികപ്പെടുത്തി വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്തേണ്ടതുണ്ട് യഥാർത്ഥ ഉള്ളടക്കം തന്നെ പ്രഖ്യാപിച്ച വിഷയങ്ങൾ സമയപരിധി നിശ്ചിത സമയം നൽകി വിദ്യാർത്ഥി സമയപരിധി എത്രത്തോളം പരിപാലിക്കുന്നു ഏതുതരം വിഷ്വൽ എയ്ഡുകൾ ഉപയോഗിക്കുന്നു ഉള്ളടക്ക പാലിക്കൽ നടക്കുന്നുണ്ടോ ഉള്ളടക്കത്തിന്റെയും പ്രെസെന്റഷന്റെയും പ്രൊഫഷണലിസം ഇതുപോലുള്ള നിരവധി ആട്രിബ്യൂട്ടുകൾ ഉണ്ടായിരിക്കാം മാത്രമല്ല അവ ശ്രേണിക്രമത്തിൽ ക്രമീകരിക്കാൻ കഴിയും അത് നമുക്ക് നോൺ വെർബൽ കഴിവുകളുള്ള ശ്രേണിയുടെ മുകളിലാണ് അത് കണ്ണ് സമ്പർക്കം മുഖഭാവം ഭാവം ആംഗ്യങ്ങൾ മുതലായവയായി താഴ്ന്ന നിലയിലേക്ക് വിഭജിച്ചിരിക്കുന്നു ലിസ്റ്റുചെയ്തിരിക്കുന്ന ഓരോ ആട്രിബ്യൂട്ടുകൾക്കും ചില ലെവലുകളിൽ പ്രകടനം നിർണ്ണയിക്കേണ്ടതുണ്ട് പ്രകടന നില ഏകദേശം 3 മുതൽ 5 വരെ ആകാം കാരണം പ്രകടന നിലകൾ വിലയിരുത്തുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാണ് മാത്രമല്ല എളുപ്പവുമല്ല പ്രകടന നില കുറയുന്നതനുസരിച്ച് വിലയിരുത്തൽ വളരെ സാമാന്യമായിരിക്കും ഓരോ ലെവലിനുമായി വിദ്യാർത്ഥിയുടെ പ്രകടനം ഏത് നിലയിലായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്ന സാഹചര്യങ്ങളിൽ വിവരിക്കണം ഉദാഹരണത്തിന് കണ്ണ് സമ്പർക്കം ആ പ്രത്യേക ആട്രിബ്യൂട്ടിന് അനുവദിച്ച പരമാവധി മാർക്ക് 3 ഏത് സാഹചര്യത്തിലാണ് ഒരു വിദ്യാർത്ഥിക്ക് മുഴുവൻ 3 മാർക്കും ലഭിക്കുന്നത് എന്നതിന്റെ പ്രകടനം മാനദണ്ഡം വിവരിക്കുക ഈ മാനദണ്ഡം ആശയവിനിമയം നടത്തുമ്പോൾ അവന്റെ പ്രകടനത്തിൽ ഈ പ്രത്യേക ആട്രിബ്യൂട്ട് കണക്കിലെടുക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ വിദ്യാർത്ഥിക്ക് സ്വയം അല്ലെങ്കിൽ സ്വയം പരിശീലിപ്പിക്കാൻ കഴിയും പ്രകടനവുമായി ബന്ധപ്പെട്ട ഓറിയന്റഡ് ടെസ്റ്റ് ഇനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള ഒരു റൈബ്രിക്സ് തയ്യാറാക്കലും അവ വിദ്യാർത്ഥികളുമായി മുൻകൂട്ടി പങ്കിടുന്നതും വിദ്യാർത്ഥികളെ നന്നായി ചെയ്യാൻ സഹായിക്കും നമുക്ക് ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഉപകരണമാണിത് വൈഷമ്യം മൂല്യനിർണ്ണയ ഇനങ്ങളുടെ മറ്റൊരു പ്രധാന വശം മിക്കപ്പോഴും ചില ഫാക്കൽറ്റികൾ എന്തുകൊണ്ടാണ് അവർ സൃഷ്ടിച്ച മൂല്യനിർണ്ണയ ഇനങ്ങൾ കുറഞ്ഞ സങ്കീർണ്ണതയിലുള്ളത് എന്ന് ഒരു വിശദീകരണമായി നൽകുന്നു സിഒ അപ്ലൈ തലത്തിലാണെങ്കിൽ അവർ അണ്ടർസ്റ്റാൻഡ് തലത്തിൽ ഒരു ചോദ്യം ചോദിക്കുകയും അതിനു കാരണമായി തങ്ങളുടെ വിദ്യാർത്ഥികൾ ദുർബലരാണെന്നും അവർക്കു അതിനു ഉത്തരം നല്കാൻ കഴിയില്ല എന്നും പറയുന്നു ബുദ്ധിമുട്ടുള്ള നിലയും സങ്കീർണ്ണമായ നിലയും തമ്മിലുള്ള ആശയക്കുഴപ്പത്തിന്റെ ഫലമാണിത് ഇവ രണ്ടും രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ് സങ്കീർണ്ണത എന്നത് വൈജ്ഞാനിക നിലയെ സൂചിപ്പിക്കുന്നു എന്നാൽ ബുദ്ധിമുട്ട് നില എന്നത് അതേ വൈജ്ഞാനിക തലത്തിൽ വിദ്യാർത്ഥി എത്രത്തോളം പരിശ്രമിക്കുന്നു പ്രശ്നം പരിഹരിക്കാൻ എടുത്ത സമയം കോഗ്നിറ്റീവ് ലോഡ് എടുക്കേണ്ട വസ്തുതകളുടെ എണ്ണം കണക്കിലെടുക്കേണ്ട ആശയങ്ങളുടെ എണ്ണം എന്നിവയെ സൂചിപ്പിക്കുന്നു അതായത് അതേ കോഗ്നിറ്റീവ് ലെവലിൽ തന്നെ ഉള്ളത് എനിക്ക് ഇപ്പോൾ വ്യത്യസ്ത ബുദ്ധിമുട്ടുള്ള തലങ്ങളുടെ വിലയിരുത്തൽ ഇനങ്ങൾ ലഭിക്കും നമുക്ക് അവയെ എത്ര ലെവലുകളായി തരംതിരിക്കാം പക്ഷേ സാധാരണയായി ആളുകൾ അവയെ 3 ലെവലുകളായി തരം തിരിക്കും വളരെ കുറഞ്ഞ ബുദ്ധിമുട്ട് ലെവൽ മിതമായ ബുദ്ധിമുട്ട് ലെവൽ ഉയർന്ന ബുദ്ധിമുട്ട് ലെവൽ തന്നിരിക്കുന്ന വൈജ്ഞാനിക തലത്തിൽ വ്യത്യസ്ത ബുദ്ധിമുട്ടുള്ള തലങ്ങളിൽ മൂല്യനിർണ്ണയ ഇനങ്ങൾ നിർമ്മിക്കാൻ കഴിയും വിദ്യാർത്ഥികളോട് നീതി പുലർത്തുന്നതിന് അവരെ നന്നായി പഠിക്കാൻ സഹായിക്കുന്നതിന് നമ്മൾ വൈജ്ഞാനിക തലത്തിൽ ഉറച്ചുനിൽക്കുന്നതാണ് നല്ലത് സങ്കീർണ്ണതയിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല നമ്മൾ വൈജ്ഞാനിക തലത്തിൽ ഉറച്ചുനിൽക്കുന്നു എന്നാൽ ആ വൈജ്ഞാനിക തലത്തിൽ നമുക്ക് കുറവ് പ്രയാസമുള്ള മൂല്യനിർണ്ണയ ഇനങ്ങൾ രചിക്കാൻ കഴിയും അതാണ് നമ്മുടെ വിദ്യാർത്ഥികളിൽ നിന്ന് നമുക്ക് ആവശ്യമെന്ന് തോന്നിയാൽ എന്നാൽ വൈജ്ഞാനിക തലത്തിൽത്തന്നെ വിട്ടുവീഴ്ച ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്ക് ഒരു അപമാനമായിരിക്കും ഉള്ളടക്കം ചുമതല ഘടന എന്നിവയാൽ വൈഷമ്യ നിലയുടെ സവിശേഷത നിർവ്വചിക്കപ്പെടുന്നു ഉദാഹരണം ഒരേ വൈജ്ഞാനിക തലത്തിൽ മൂന്ന് വ്യത്യസ്ത ബുദ്ധിമുട്ടുള്ള തലങ്ങളുടെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു ആദ്യത്തേത് താഴ്ന്ന ബുദ്ധിമുട്ട് രണ്ടാമത്തേത് മിതമായ ബുദ്ധിമുട്ട് മൂന്നാമത്തേത് ഉയർന്ന ബുദ്ധിമുട്ട് നില അവയെല്ലാം സമയപരിധി നിർണ്ണയിക്കുന്നതിനാണ് ചോദിച്ചിരിക്കുന്നത് ഇത് അടിസ്ഥാനപരമായി അപ്ലൈ വൈജ്ഞാനിക തലത്തിലാണ് 1 മീറ്റർ നീളമുള്ള ലളിതമായ പെൻഡുലത്തിന്റെ സമയപരിധി അതിനാൽ ഇത് വളരെ സാധാരണമാണ് പക്ഷേ ഭൂമിയുടെ ഉപരിതലത്തിൽ ഈ സമയ കാലയളവ് കണക്കാക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുക എന്നത് ഏറ്റവും താഴ്ന്ന നിലയിലാണ് രണ്ടാമത്തേതിൽ സമാന വിവരങ്ങൾ കണക്കാക്കണം ഇപ്പോൾ പെൻഡുലം ഒരു ലിഫ്റ്റിൽ സ്ഥാപിച്ചിരിക്കുന്നു ഇത് ഒരു സെക്കൻഡ് സ്ക്വയറിന് 2 മീറ്റർ എന്ന വേഗതയിൽ മുകളിലേക്ക് നീങ്ങുന്നു ഒരേ വൈജ്ഞാനിക നില നിലനിർത്തിക്കൊണ്ടുതന്നെ ഇത് ഉയർന്ന ബുദ്ധിമുട്ടുള്ള തലത്തിലാണ് മൂന്നാമത്തേതും സമാനമാണ് 1 മീറ്റർ നീളമുള്ള ലളിതമായ പെൻഡുലത്തിന്റെ സമയപരിധി നിർണ്ണയിക്കുന്നു എന്നാൽ ഇപ്പോൾ സന്ദർഭം ബോബിന്റെ പത്തിലൊന്ന് സാന്ദ്രതയില്ലാത്ത വിസ്കോസ് മാധ്യമത്തിൽ മുക്കിയ ബോബ് ആണ് അത് സെക്കൻഡ് സ്ക്വയറിന് 2 മീറ്റർ എന്ന ആക്സിലറേഷൻ ഉപയോഗിച്ച് മുകളിലേക്ക് ചലിക്കുന്ന ലിഫ്റ്റിൽ സ്ഥാപിച്ചിരിക്കുന്നു ഇത് രണ്ടാമത്തേതിനേക്കാൾ ഉയർന്ന ബുദ്ധിമുട്ടുള്ള നിലയാണ് എന്നാൽ അവയെല്ലാം ഒരേ വൈജ്ഞാനിക തലത്തിലാണ് നാം വൈജ്ഞാനിക നിലയെ ത്യജിക്കാതിരിക്കുക എന്നത് വളരെ പ്രധാനമാണ് പക്ഷേ ബുദ്ധിമുട്ടുള്ള തലങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ചോദ്യം കുറയ്ക്കാൻ കഴിയും സങ്കീർണ്ണത ഉയർന്ന വൈജ്ഞാനിക നിലയെ സൂചിപ്പിക്കുന്നു ബുദ്ധിമുട്ട് ഉയർന്ന വൈജ്ഞാനിക തലങ്ങളുമായി ബന്ധപ്പെടുത്തരുത് ഉയർന്ന വൈജ്ഞാനിക തലങ്ങളിൽ ഒരാൾക്ക് താഴ്ന്ന നിലയിലുള്ള ബുദ്ധിമുട്ടുള്ള പരീക്ഷണ ഇനങ്ങൾ ഉണ്ടാകാം പ്രസക്തമായ വൈജ്ഞാനിക തലങ്ങളിൽ നിന്നുള്ള പരീക്ഷണ ഇനങ്ങൾ പ്രയാസത്തിന്റെ പേരിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ഇത് ഒരു അപമാനമായിരിക്കും അത് ഒരു ഒഴികഴിവും അപമാനവും മാത്രമായി മാറുന്നു അതേ വൈജ്ഞാനിക തലത്തിൽ മൂല്യനിർണ്ണയ ഇനത്തിന്റെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ നമുക്ക് കഴിയും ഒരു എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ പശ്ചാത്തലത്തിൽ ഒരു ഡിസൈൻ ഘട്ടത്തിന്റെ ഉപപ്രക്രിയകൾ നിർദ്ദിഷ്ട ഉപപ്രക്രിയകളും അവയുടെ ക്രമവും ആദ്യം അസ്സസ്മെന്റിനും വിലയിരുത്തലിനുമുള്ള സാങ്കേതികവിദ്യ തിരഞ്ഞെടുക്കുക അടുത്ത യൂണിറ്റിൽ നമ്മൾ അത് കാണും CO കൈവരിക്കുന്നതിനുള്ള ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുക അസ്സസ്സ്മെന്റ് പാറ്റേൺ അസ്സസ്സ്മെന്റ് ഉപകരണങ്ങൾ എന്നിവ രൂപകൽപ്പന ചെയ്യുക പഠന നിലവാരം ഉറപ്പാക്കുന്ന അസ്സസ്സ്മെന്റിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് ഇത് മുൻകൂട്ടി ചെയ്യണം അതുവഴി ഇന ബാങ്ക് സൃഷ്ടിക്കപ്പെടുന്നു വ്യായാമം നിങ്ങളുടെ കോഴ്സിന് പ്രസക്തമായി കണക്കാക്കുന്ന എന്നാൽ ഈ യൂണിറ്റിൽ അഭിസംബോധന ചെയ്തിട്ടില്ലാത്ത മൂല്യനിർണ്ണയത്തിന്റെ വശങ്ങൾ എഴുതുക നിങ്ങളുടെ കോഴ്സ് രൂപകൽപ്പന ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ADDIE ന്റെ ഡിസൈൻ ഘട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമാണെന്ന് നിങ്ങൾ കരുതുന്ന വ്യത്യസ്ത ഉപപ്രക്രിയകൾ വിവരിക്കുക ഈ വ്യായാമത്തിന്റെ ഫലങ്ങൾ story com ൽ പങ്കിട്ടതിന് നന്ദി അടുത്ത യൂണിറ്റിൽ നമ്മൾ ഡിസൈൻ ഘട്ട ഉപപ്രക്രിയകളെക്കുറിച്ച് ചർച്ച ചെയ്യും ആ യൂണിറ്റിന്റെ ഔട്ട്കം ഇതായിരിക്കും വിലയിരുത്തലിനായി സാങ്കേതികവിദ്യ തിരഞ്ഞെടുക്കുന്നതിനും CO നേട്ടങ്ങൾക്കായി ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നതിനുമുള്ള ഉപപ്രക്രിയകൾ മനസിലാക്കുക ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള എൻബിഎ പ്രക്രിയയുടെ നിർണ്ണായക ഘടകമാണ് സിഒ കൈവരിക്കാനുള്ള ലക്ഷ്യം തിരഞ്ഞെടുക്കുന്നത് സിഒ കൈവരിക്കുന്നതിനുള്ള ലക്ഷ്യം നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചു നമ്മൾ കോഴ്സ് നൽകുന്നു ആ ലെവലുകൾ നേടുന്നതിനായി ഇൻസ്ട്രക്ഷണൽ ഡെലിവറി രൂപകൽപ്പന ചെയ്യുക മൂല്യനിർണ്ണയത്തിലൂടെ നമ്മൾ യഥാർത്ഥ നേട്ടത്തിന്റെ അളവ് അളക്കുന്നു ടാർഗെറ്റ് അനുസരിച്ചാണ് യഥാർത്ഥ നേട്ടത്തിന്റെ നില എങ്കിൽ നമ്മൾക്ക് നേട്ട ലെവൽ ടാർഗെറ്റുകൾ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനാകും പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ച ടാർഗെറ്റ് ലെവലുകൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടാൽ അതിനുള്ള കാരണങ്ങൾ പരിശോധിച്ച് പരിഹാര നടപടികൾ സൃഷ്ടിക്കാൻ ശ്രമിക്കണം മെച്ചപ്പെടുത്തൽ പദ്ധതികൾ വഴി അടുത്ത ബാച്ച് ഉദ്ദേശിച്ച ടാർഗെറ്റ് ലെവലുകൾ കൈവരിക്കും അത് ഗുണനിലവാര ലൂപ്പ് പൂർത്തിയാക്കും വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന്റെ സാരം ഇതാണ് ഇത് ചെയ്യുന്നതിന് ഈ ഗുണനിലവാര ലൂപ്പ് അടയ്ക്കുന്നതിന് നമ്മൾക്ക് ശരിക്കും ഉപയോഗപ്രദമാകുന്ന ഡാറ്റ വിലയിരുത്തൽ നമുക്ക് നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിനർത്ഥം വിലയിരുത്തൽ സാധുതയുള്ളതും വിശ്വസനീയവുമായിരിക്കണം എന്നാണ് അതിന് ചില പ്രക്രിയകൾ പിന്തുടരേണ്ടതുണ്ട് അതാണ് നമ്മൾ ഡിസൈൻ ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നത് അടുത്ത യൂണിറ്റിലും നമ്മൾ ഇത് തുടരും വളരെ നന്ദി നമ്മൾ വീണ്ടും കാണും